നമുക്ക് ചർച്ച തുടരാം അതിനാൽ ഈ രണ്ടാമത്തെ പ്രഭാഷണത്തിൽ നമ്മൾ വിവിധ ഡിസൈൻ റെപ്രെസെന്റഷനെക്കുറിച്ചു സംസാരിക്കും അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ വിഷയം ഡിസൈൻ റെപ്രെസെന്റഷൻ ആണ് അതിനാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് ഒരു ഡിസൈൻ ഉണ്ട് ഈ ഡിസൈൻ ഏത് തലത്തിലും ആകാം അത് വളരെ ഹൈ ലെവൽ ഡിസൈൻ ആകാം ഇത് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസൈൻ ആകാം ഇത് വളരെ ലോ ലെവൽ ഡീറ്റൈൽ ഡിസൈൻ ആകാം എന്നാൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് തലത്തിലുമുള്ള ഡിസൈൻ സാധ്യമായ മൂന്നു കോണുകളിൽ നിന്ന് ദൃശ്യവൽക്കരിക്കാനോ കാണാനോ കഴിയും എന്നതാണ് അതിനാൽ 3 കോണുകൾ ബിഹേവിയറൽ സ്ട്രക്ച്ചറൽ ഫിസിക്കൽ എന്നിവ ആണെന്ന് നമുക്ക് പറയാം ബിഹേവിയറൽ എന്നാൽ എന്താണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നത് സ്ട്രക്ച്ചറൽ കൂടാതെ യഥാർത്ഥത്തിൽ ചിപ്പ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു സെൽ എന്നിങ്ങനെ നടപ്പിലാക്കുന്നതാണ് ഫിസിക്കൽ 3 കോണുകൾ കാരണം അതിനെ ഒരു വൈ ഡയഗ്രം എന്ന് വിളിക്കാം അതിനാൽ ഈ വൈ ഡയഗ്രം എങ്ങനെ കാണപ്പെടുന്നുവെന്നും ഈ 3 വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഡിസൈനിന്റെ വിവിധ വശങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്നും നമുക്ക് നോക്കാം Y ഡയഗ്രം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനാകുന്ന Y യുടെ 3 ഭുജങ്ങൾ ബിഹേവിയറൽ സ്ട്രക്ച്ചറൽ ഫിസിക്കൽ എന്നീ 3 കോണുകളുമായി യോജിക്കുന്നു അതിനാൽ നിങ്ങൾ ബിഹേവിയറൽ എന്നതിനെക്കുറിച്ചു സംസാരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് സർക്യൂട്ട് എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങൾ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചോ എങ്ങനെയാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്യുന്നതെന്നോ വിശദമായി പറയാൻ പോകുന്നില്ല അതിനാൽ പെരുമാറ്റത്തെ പ്രതിനിധീകരിക്കാനുള്ള ചില സാധാരണ വഴികൾ പ്രോഗ്രാമുകളും അതുപോലെ വെരി ലോവർ PHDL പോലുള്ള ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജും ആണ് വിവിധ രൂപത്തിലുള്ള സ്പെസിഫിക്കേഷനുകൾ ഉദാഹരണത്തിന് ബൂലിയൻ ഇക്വഷൻസ് സ്പെസിഫിക്കേഷനുകൾ ആകാം ട്രൂത് ടേബിൾസ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് തുടങ്ങിയവ ആകാം സ്ട്രക്ച്ചറൽ ഡൊമെയ്ൻ രജിസ്റ്ററുകൾ ആഡറുകൾ ഗേറ്റുകൾ തുടങ്ങിയവയുടെ ചില തരത്തിലുള്ള നെറ്റ് ലിസ്റ്റ് ഇന്റർ കണക്ഷനുകൾ പറയുന്നു ഒരുപക്ഷേ ഹൈ ലെവൽ മൊഡ്യൂളുകൾ പ്രോസസർ മെമ്മറി ഫിസിക്കൽ ഡൊമെയ്നിൽ നമ്മൾ സംസാരിക്കുന്നത് ചിപ്പുകൾ ബോർഡുകൾ ബേസിക് സെൽസ് ട്രാൻസിസ്റ്ററുകൾ തുടങ്ങിയവയെക്കുറിച്ചാണ് അതിനാൽ ഏത് ഡിസൈനും 3 കോണുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് കാണാൻ കഴിയും നമുക്ക് ഈ 2 ഡയഗ്രാമുകൾ നോക്കാം കാരണം ഈ 2 ഡയഗ്രമുകൾ യഥാർത്ഥത്തിൽ Y ഡയഗ്രം എങ്ങനെ വ്യാഖ്യാനിക്കാനാകുമെന്ന് കാണിക്കുന്നു ഇടതുവശത്തുള്ള ഈ ആദ്യ ഡയഗ്രം നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ഈ സാങ്കൽപ്പിക വൃത്തങ്ങൾ വരച്ചതായി കാണാം ഇവ കോൺസെൻട്രിക് സർക്യൂട്ടുകളാണ് ഇവ Y യുടെ 3 കൈകളിലൂടെ പോയിന്റുകളിലൊന്നിൽ സ്പർശിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബിഹേവിയറൽ ലെവലിൽ കാണാം നമ്മുടെ കയ്യിൽ സിസ്റ്റങ്ങൾ എന്നൊരു നോട്ട് ഉണ്ട് സ്ട്രക്ടറൽ ലെവലിൽ ഇതിൻറെ ഇക്വിവലെന്റ് നോഡ് സിപിയു മെമ്മറിയും ജ്യോമട്രിക്കൽ ലെവലിൽ ഇതിൻറെ ഇക്വിവലെന്റ് ചിപ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പാർട്ടീഷനുകൾ എന്ന് പറയുന്നു അതിനാൽ ഇത് എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്റെ പക്കലുണ്ടെന്ന് പറയുക ഈ കമ്പ്യൂട്ടറിന് എന്റെ ചില പെരുമാറ്റങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ കമ്പ്യൂട്ടർ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു ഇപ്പോൾ മറ്റൊരു കോണിൽ നിന്ന് ഇത് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സിപിയു ഉൾപ്പെടുന്നതായി കമ്പ്യൂട്ടറിനെ ദൃശ്യവൽക്കരിക്കാനാകും അതിൽ ഒന്നോ അതിലധികമോ മെമ്മറി മൊഡ്യൂളുകൾ അടങ്ങിയിരിക്കാം കൂടാതെ ഒരു ഐഒ മൊഡ്യൂൾ ഒരു ഐഒ പ്രോസസർ അതിനാൽ മറ്റൊരു കോണിൽ നിന്ന് അതേ കമ്പ്യൂട്ടറിനെ CPU മെമ്മറി IO തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള പ്രവർത്തന ബ്ലോക്കുകളുടെ ഒരു ഇന്റർ കണക്ഷനായി കാണാൻ കഴിയും ഇത് നിങ്ങളുടെ സ്ട്രക്ടറൽ വ്യൂ ആകാം പക്ഷേ ഫിസിക്കൽ വ്യൂ ലേക്ക് വരുമ്പോൾ ഇതേ രൂപകൽപ്പന പ്രോസസറിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിപ്പ് ആകാം ആദ്യ മെമ്മറിയെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു ചിപ്പ് രണ്ടാമത്തെ മെമ്മറി പ്രതിനിധാനം ചെയ്യുന്ന ചിപ്പ് IO പ്രതിനിധീകരിക്കുന്ന 2 ചിപ്പുകൾ എന്നിവ അതിനാൽ അവർ തമ്മിലുള്ള കുറച്ച് പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകും ഇത് പോലെ ഒന്ന് അതിനാൽ ഇത് നിങ്ങളുടെ ഫിസിക്കൽ ആയിരിക്കും അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അബ്സ്ട്രക്ഷന്റെ അതേ ലെവലിലുള്ള ഡിസൈൻ 3 വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണാൻ കഴിയും എന്നതാണ് ഒന്ന് ബിഹേവിയറൽ ആയി മറ്റൊന്ന് ഒരു നെറ്റ് ലിസ്റ്റായി മറ്റൊന്ന് യഥാർത്ഥത്തിൽ നിർമ്മിച്ച ചില ഘടകങ്ങളായി ഈ സാഹചര്യത്തിൽ തന്നെ ചിപ്പുകൾ പോലെ പരസ്പരം ബന്ധിപ്പിച്ച് സിസ്റ്റം നടപ്പിലാക്കുന്നു അതുപോലെ നിങ്ങൾക്ക് മറ്റ് ചില ഉദാഹരണങ്ങളോ മറ്റ് തലങ്ങളോ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ചില ബൂളിയൻ സമവാക്യങ്ങൾ f a b c എന്ന് പറഞ്ഞാൽ ഇത് ബിഹേവിയറൽ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ എനിക്ക് ഇത് ചില ഗേറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധീകരിക്കാം അത് എന്റെ സ്ട്രക്ടറൽ ബിഹേവിയർ ആണ് ഈ ഗേറ്റുകൾ ഒടുവിൽ NAND അല്ലെങ്കിൽ NOR അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള CMOS സെല്ലുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും അത് ഫിസിക്കൽ റെപ്രെസെന്റഷൻ ആയിരിക്കും അതിനാൽ ഏത് തലത്തിലുള്ള അബ്സ്ട്രക്ഷനിൽ നിന്നും നമുക്ക് ഈ കാഴ്ച ലഭിക്കും അതിനാൽ ഈ ഡയഗ്രാമിൽ നിങ്ങൾ അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ ഈ കേന്ദ്രത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ ഇവിടെ ലോജിക്കിനെ കുറിച്ചു സംസാരിക്കുന്നു ഘടനാപരമായി നിങ്ങൾ ALU കളെയും രജിസ്റ്ററുകളെയും കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ നിങ്ങൾ മാക്രോകളെയും ഫ്ലോർ പ്ലാനുകളെയും കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ താഴേക്ക് പോയാൽ ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ ഗേറ്റുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സെല്ലുകൾ മൊഡ്യൂൾ പ്ലാനുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കും അതിനാൽ നിങ്ങൾ സെന്ററിൽ നിന്ന് താഴേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ റിഫൈൻ ചെയ്യുകയോ ഡിസൈൻ ചെയ്യുകയോ കൂടുതൽ കൂടുതൽ വിശദമാക്കുകയോ ചെയ്യുന്നു Y ഡയഗ്രം വ്യാഖ്യാനിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ഇപ്പോൾ ഇത് വലതുവശത്തെ ഡയഗ്രം കാണിക്കുന്നതുപോലെ വൈ ഡയഗ്രം അല്പം വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയും ഇവിടെ ആം ബിഹേവിയറിനെ കാണിക്കുന്നു ഇത് സ്ട്രക്ടറലും ഇത് ഫിസിക്കലോ അല്ലെങ്കിൽ ജോമെട്രിക്കലോ ആണ് വൃത്തത്തിനുപകരം നമ്മൾ ഇവിടെ ഒരു തരം ഹെലിക്സ് വരച്ചിട്ടുണ്ട് അത് ഇവിടെ ആരംഭിക്കുകയും അത് മധ്യഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ടോപ്പ് ഡൌൺ ഡിസൈനിനെ പ്രതിനിധീകരിക്കുന്നു എങ്ങനെ ഒരു ബിഹേവിയറിൽ നിന്ന് ആരംഭിക്കുന്നതിന് ഒരു അൽഗോരിതം പറയട്ടെ ഈ അൽഗോരിതം സ്പെസിഫിക്കേഷൻ നിങ്ങൾ ആദ്യം സിന്തെസിസ് ചെയ്യുകയോ സ്ട്രക്ടറൽ ഡിസൈൻ ഡീകമ്പോസ് ചെയ്യുകയോ ചെയ്യുന്നു അതിൽ പറയുന്നു ചില പ്രോസസ്സർ CPU കൾ മെമ്മറികൾ IO മുതലായവ തമ്മിലുള്ള ചില ഇന്റർ കണക്ഷൻ ഇപ്പോൾ ഈ നെറ്റ് ലിസ്റ്റ് ഫിസിക്കൽ ഡൊമെയ്നിലേക്ക് വിവർത്തനം ചെയ്യും അവിടെ നിങ്ങൾ ഒരു ചിപ്പ് ലെവൽ ഫ്ലോർ പ്ലാൻ ചെയ്യുന്നു നിങ്ങളുടെ ചിപ്പിൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം നിങ്ങളുടെ പ്രോസസർ ഇവിടെ വയ്ക്കുക ആദ്യ മെമ്മറി ഇവിടെ രണ്ടാമത്തെ മെമ്മറി ഇവിടെ IO ചിപ്പുകൾ അതിനാൽ നിങ്ങൾ സിലിക്കണിൽ ഒരു താൽക്കാലിക ഫ്ലോർ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വളരെ ഉയർന്ന തലത്തിലുള്ള മൊഡ്യൂളുകൾ സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നിങ്ങൾ ഈ ഭാഗം പിന്തുടരുക ഇത് പറയുന്നത് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനുകൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനുകൾ മാത്രമല്ല ഒരുതരം ലോജിക് സവിശേഷതകളും ആകാം അതിനാൽ ഈ ബ്ലോക്കുകൾ ഓരോന്നും നിങ്ങൾ വീണ്ടും ബിഹേവിയറൽ ഡൊമെയ്നിലേക്ക് പോകുന്നു ഈ ബ്ലോക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്താണ് സിപിയുവിന്റെ പ്രവർത്തനം എന്താണ് മെമ്മറിയുടെ പ്രവർത്തനം എന്നിങ്ങനെ ഇവ ഓരോന്നും വീണ്ടും ഈ സിന്തസിസിലൂടെ കടന്നുപോകും നിങ്ങൾ അവ പ്രോസസ്സറുകൾ ALU കൾ രജിസ്റ്ററുകൾ മുതലായവയ ആയി ട്രാൻസ്ലേറ്റ് ചെയ്യുക വീണ്ടും നിങ്ങൾ മൊഡ്യൂളുകളുടെ വിവരണത്തിലേക്ക് പോകുക വീണ്ടും നിങ്ങൾ ഗേറ്റുകൾ അല്ലെങ്കിൽ ചില സെല്ലുകൾ പോലുള്ള വിവരണത്തിലേക്ക് പോകും അത് പിന്നീട് സംസാരിക്കും വീണ്ടും ഈ സെല്ലുകൾ എങ്ങനെ സ്ഥാപിക്കാം പിന്നീട് വീണ്ടും ലോവർ ലെവെലിലേക്ക് അവസാനം ലേ ഔട്ട് മാസ്ക് വരെ ട്രാൻസിസ്റ്റർ അതിനാൽ നിങ്ങൾ ഈ തരത്തിലുള്ള ഹെലിക്സ് സമീപനം ഔട്ടർ സർക്കിൾ മുതൽ ഇന്നർ മോസ്റ്റ് സർക്കിൾ വരെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന കൃത്യമായ പ്രക്രിയയാണ് പിന്തുടരുന്നത് മുകളിൽ നിന്ന് താഴെയുള്ള ഡിസൈൻ സമീപനത്തിലൂടെ കടന്നുപോകുമ്പോൾ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾപതുക്കെ ഞങ്ങളുടെ ഡിസൈൻ പരിഷ്കരിക്കുകയും കൂടുതൽ വിശദമായ ഡിസൈനിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് അബ്സ്ട്രക്ഷന്റെ വിവിധ തലങ്ങളിൽ നോക്കാം ഇത് എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നോക്കാം ബിഹേവിയറൽ റെപ്രെസെന്റഷൻ ഡിസൈൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമാക്കാതെയും നൽകാതെയും നൽകിയ ഒരു കൂട്ടം ഇൻപുട്ടുകളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു ഞാൻ ഒരു ഇൻപുട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് വേണം എന്ന് പറയാൻ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ലഭിക്കണം എന്നത് എന്റെ ബിഹേവിയർ ആണ് ഇപ്പോൾ ഈ സ്വഭാവം നിങ്ങൾ വ്യക്തമാക്കുന്ന ലെവലിനെ ആശ്രയിച്ച് പല തരത്തിൽ വ്യക്തമാക്കാം ഇവയിൽ ചിലത് ഇവിടെ പരാമർശിക്കപ്പെടുന്നു ഇവ തീർച്ചയായും പൂർണ്ണമായ ബൂലിയൻ സമവാക്യങ്ങളല്ല നിങ്ങൾക്ക് ഒരുതരം ട്രൂത് ടേബിൾ ഉണ്ടായിരിക്കാം സീക്വെൻഷ്യൽ സർക്യൂട്ടുകൾ സീക്വെൻഷ്യൽ ഫങ്ക്ഷന്സ് എന്നിവക്കായി നിങ്ങൾക്ക് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഉണ്ടായിരിക്കാം വിവരണത്തോടൊപ്പം നിങ്ങൾക്ക് സി അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ സി പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ അൽഗോരിതം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെരിലോഗ് അല്ലെങ്കിൽ വിഎച്ച്ഡിഎൽ പോലുള്ള ഹാർഡ്വെയർ വിവരണ ഭാഷകളിൽ ഈ അൽഗോരിതം പ്രകടിപ്പിക്കാനും കഴിയും അതിനാൽ ഇതിലേതെങ്കിലും ഒന്നിൽ ബിഹേവിയർ വ്യക്തമാക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെരുമാറ്റ സവിശേഷതകളിൽ നിങ്ങൾ കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്താണ് വേണ്ടത് പക്ഷേ കൃത്യമായി അത് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അത് പറയുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നില്ല ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം നമുക്ക് ഒരു n bit adder ഉണ്ടെന്ന് പറയാം n 1 bit adders കാസ്കേഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ഒരു ഫുൾ ആഡർ ഉണ്ടെന്ന് കരുതുക അപ്പോൾ എങ്ങനെയാണ് ഒരു ഫുൾ ആഡർ പ്രവർത്തിക്കുന്നത് ഫുൾ ആഡറിന് 3 ഇൻപുട്ടുകൾ ഉണ്ട് 2 ഇൻപുട്ടുകൾ എ ബി 2 ബിറ്റുകളും സിയിൽ ഒരു ക്യാരി ആകാം ഔട്ട്പുട്ടുകൾ സം ഉം ക്യാരി ഉം ആണ് ഒരു 4 ബിറ്റ് ആഡ്ഡർ രൂപകൽപ്പന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിപ്പിൾ ക്യാരി ആഡ്ഡർ എന്ന് വിളിക്കപ്പെടുന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അത്തരം 4 ഫുൾ ആഡർ ഉപയോഗിക്കുന്നു ഞാൻ അവരെ ഒരു ശൃംഖലയിൽ കാസ്കേഡ് ചെയ്യുന്നു ഇത് എന്റെ ലീസ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണെന്ന് കരുതുക ഇതാണ് എന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇവയാണ് 4 ഫുൾ ആഡർ ഞാൻ എന്റെ ലീസ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് A0 B0 ഇവിടെ A1 B1 A2 B2 ഇവിടെ A3 B3 എന്നിവ ഇവിടെ ബന്ധിപ്പിക്കുന്നു സം ഈ ഭാഗത്തുനിന്നും ഔട്ട്പുട്ടായി നിങ്ങൾക്ക് ലഭിക്കും ലെസ്സ് സിഗ്നിഫിക്കണ്ട് സം തുടർന്ന് എസ് 1 എസ് 2 എസ് 3 ഇപ്പോൾ CY0 ൽ നിന്നുള്ള ക്യാരി ഔട്ട് പുട്ടുകൾ അടുത്ത ഘട്ടത്തിന്റെ ക്യാരിയിലേക്ക് പോകുന്നു അതുപോലെ CY1 C2 ലേക്ക് പോകുന്നു CY2 C3 ലേക്ക് പോകുന്നു ഒടുവിൽ CY3 പുറത്തുവരുന്നു അതായിരിക്കും ഫൈനൽ അഡിഷന്റെ ക്യാരി ഔട്ട് അതിനാൽ ഒരു 4 ബിറ്റ് ആഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ റിപ്പിൾ ക്യാരി ആഡർ എന്ന് വിളിക്കുന്നു കാരണം ക്യാരി പുറത്തുവരുന്നതിന് മുമ്പ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നേക്കാം ശരി അതിനാൽ ഇത് എന്റെ ഒരു ബിഹേവിയർ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരു സ്ട്രക്ച്ചറൽ ലെവൽ ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ ഞാൻ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിൽ ഫുൾ ആഡർ ഉപയോഗിച്ചു ഞാൻ അവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ശരിയാണ് ഈ ഉദാഹരണം ഞാൻ സ്ലൈഡിലും കാണിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ കാണിച്ച 2 വിവരണം ഇവിടെയുണ്ട് ഇവ ഒരു ഫുൾ ആഡർ ന്റെ ഫങ്ക്ഷണൽ ഡിസ്ക്രിപ്ഷനുകൾ ആണ് അതിനാൽ ഫുൾ ആഡറിൽ സം ഈ ബൂളിയൻ സമവാക്യം അല്ലെങ്കിൽ A XOR B XOR C എന്ന് നിർവചിക്കാം ക്യാരി എബി OR എസി OR ബിസി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു ബിഹേവിയറൽ രീതിയിൽ സം ക്യാരി എന്നിവ കാണാനുള്ള ഇക്വേഷനുകൾ ആണിവ ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് മൊഡ്യൂളിന്റെ സ്പെസിഫിക്കേഷന്റെ ആദ്യ രൂപം ഇതാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് വെരിലോഗ് ആണ് ഒരു വെരിലോഗ് പ്രോഗ്രാം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ ക്യാരി ഫങ്ക്ഷൻ എബി OR എസി OR ബിസി ആണ് അതിനാൽ കാരിയറിനായി ഞാൻ ഒരു മൊഡ്യൂൾ എങ്ങനെയാണ് എഴുതിയതെന്ന് നിങ്ങൾ കാണുന്നു ഈ സിന്റാക്സ് ഞാൻ നിർവ്വചിക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെയാണ് ഫങ്ക്ഷൻ ഫുൾ ആഡർ നു രണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ടാകും ഇത് ഒരു ഫുൾ ആഡർ അല്ല ക്യാരി ഭാഗം മാത്രമാണ് ഔട്ട്പുട്ട് ക്യാരി ആയിരിക്കും കൂടാതെ ഇൻപുട്ടുകൾ എ ബി സി ആയിരിക്കും അതിനാൽ ഞാൻ ഇൻപുട്ട് വേരിയബിളുകൾ ഡിക്ലയർ ചെയ്യുന്നു ഞാൻ ഔട്ട്പുട്ട് വേരിയബിളുകളും ഡിക്ലയർ ചെയ്യുന്നു തുടർന്ന് ഞാൻ അസൈൻ ചെയ്യുന്നു ഇത് AND ഇത് ORa AND b OR b AND c OR c AND d ഇപ്പോൾ നിങ്ങൾ പറയണം ഞാൻ പരാമർശിച്ചത് AND അല്ലെങ്കിൽ OR ആണോ എന്ന് അതിനാൽ ഞാൻ ഗേറ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഇത് ഘടനാപരമാണ് എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ബിഹേവിയറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത് കാരണം ഞാൻ ഇത് വ്യക്തമാക്കുകയാണെങ്കിൽ ഇത് അവസാനം എങ്ങനെ നടപ്പാക്കുമെന്ന് എനിക്കറിയില്ല ഇത് ഒന്നുകിൽ 3 AND ഗേറ്റുകളായി നടപ്പിലാക്കാം തുടർന്ന് ഒരു OR കൂടി ഉപയോഗിച്ചു 3 പ്രോഡക്റ്റ് ടേമുകളായി നടപ്പിലാക്കാം അല്ലെങ്കിൽ NAND ഗേറ്റുകൾ ഉപയോഗിച്ച് മാത്രം ഇത് നടപ്പിലാക്കാൻ കഴിയും രണ്ടും തുല്യമാണ് ഈ രണ്ട് ഡിസൈനുകളും തുല്യമാണ് അതിനാൽ നമ്മൾഅവസാനം എപ്പോഴാണ് ഗേറ്റുകളിലേക്കുള്ള ഡിസൈനിലെ സിന്തെസിസ് നിങ്ങൾ ഇതിൽ എത്തുമോ അതോ നിങ്ങൾ ഇവിടെ എത്തുമോ എന്നത് നിങ്ങളുടെ CAD ടൂളിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്പെസിഫിക്കേഷനെ ഫൈനൽ ഗേറ്റ് ലെവൽ നെറ്റ് ലിസ്റ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇത് ബിഹേവിയറൽ ലെവൽ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് ഞാൻ പറയുന്നത് സ്ട്രക്ച്ചറൽ ലെവൽ അല്ല കാരണം ഞാൻ കൃത്യമായ ഗേറ്റ് ടൈപ്സ് പരാമർശിച്ചിട്ടില്ല ഞാൻ ബൂലിയൻ സമവാക്യം a b OR b c OR c a പരാമർശിച്ചു അതുപോലെ പെരുമാറ്റം വ്യക്തമാക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് ഇവിടെ എനിക്ക് ട്രൂത് ടേബിൾ വ്യക്തമാക്കാം അതിനാൽ ഇവിടെയും ഞാൻ ക്യാരി ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമുള്ള അതേ സ്പെസിഫിക്കേഷൻ വ്യക്തമാക്കുന്നു കൺവെൻഷൻ ആദ്യം ഇൻപുട്ടുകൾ വരും പിന്നെ ഔട്ട്പുട്ട് വരും എന്നതാണ് അതിനാൽ ടേബിളും n ടേബിൾ കോൺസ്ട്രക്റ്റും ഉണ്ട് ഞാൻ ഇൻപുട്ടുകൾ നൽകുന്നു തുടർന്ന് കോളൻ എകസ്പെക്ടഡ് ഔട്ട്പുട്ട് ചില ഇൻപുട്ടുകൾ ഡോണ്ട് കെയർ ആണെങ്കിൽ എനിക്ക് ഒരു ചോദ്യചിഹ്നം ഇടാം a b എന്നിവ 1 ഉം 1 ഉം ആണെങ്കിൽ c പരിഗണിക്കാതെ തന്നെ ക്യാരി 1 ആയിരിക്കും അതുപോലെ b യും c യും 0 ഉം 0 ഉം ആണെങ്കിൽ a പരിഗണിക്കാതെ ക്യാരി 0 ആകും അതിനാൽ ഇവിടെ എനിക്ക് എന്റെ ട്രൂത് ടേബിൾ ചെറുതാക്കാം ശരിയാണ് അതിനാൽ ബിഹേവിയറൽ രീതിയിൽ ക്യാരി പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം കൂടിയാണിത് ഇനി നമുക്ക് സ്ട്രക്ച്ചറൽ റെപ്രെസെന്റഷനിലേക്ക് പോകാം അതിനാൽ ചില മൊഡ്യൂളുകളും ഘടകങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സ്ട്രക്ച്ചറൽ റെപ്രെസെന്റഷൻ നിങ്ങളോട് പറയുന്നു ഞാൻ കാണിച്ച ഈ 2 സർക്യൂട്ടുകൾ പോലുള്ള ചില പരസ്പരബന്ധം നിങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ ഉദാഹരണങ്ങളാണ് ഇവിടെ ഞാൻ 3 AND ഗേറ്റുകളും 1 OR ഗേറ്റും ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഞാൻ 4 NAND ഗേറ്റുകൾ ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നു സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷന് ഉദാഹരണങ്ങളാണ് ഇവ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അത്തരമൊരു സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ മൊഡ്യൂളുകളുടെയോ ഘടകങ്ങളുടെയോ ഒരു ലിസ്റ്റാണ് അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെ ചിലപ്പോൾ നെറ്റ്ലിസ്റ്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു നെറ്റ്ലിസ്റ്റ് ഗേറ്റ് ലെവൽ ട്രാൻസിസ്റ്റർ ലെവൽ ഹയർ ലെവൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തമാക്കാം ഈ സ്ട്രക്ച്ചറൽ ലെവലിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ ഉയർന്ന തലത്തിലുള്ള മൊഡ്യൂൾ ഉണ്ടായിരിക്കാൻ കഴിയുന്നതുപോലെ വിവിധ തലത്തിലുള്ള അബ്സ്ട്രക്ഷനും ഉണ്ടാകാം നിങ്ങളെപ്പോലെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഉദാഹരണത്തിലേക്ക് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഇവിടെ എനിക്ക് 4 ഫുൾ ആഡറുണ്ടായിരുന്നു അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഫുൾ ആഡറുകളുടെ ഒരു നെറ്റ്ലിസ്റ്റാണ് ഇത് ഫങ്ക്ഷണൽ അല്ലെങ്കിൽ മൊഡ്യൂൾ ലെവലിൽ ആണ് അവിടെ എന്റെ ഫുൾ ആഡർ മൊഡ്യൂളാണ് അപ്പോൾ എനിക്ക് ഗേറ്റ് ലെവൽ ലഭിക്കും അതിനാൽ ഗേറ്റ് തലത്തിൽ എനിക്ക് ഒരു കൂട്ടം ഗേറ്റുകളും ഇന്റർകണക്ഷനും ഉണ്ട് ഞാൻ ഇവിടെ ഡയഗ്രാമുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഗേറ്റ് ലെവൽ അതുപോലെ എനിക്ക് സ്വിച്ച് ലെവൽ ഉണ്ടാകും സ്വിച്ച് ലെവൽ എന്നാൽ ട്രാൻസിസ്റ്റർ ലെവൽ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഓരോ ഗേറ്റും ഒരു ട്രാൻസിസ്റ്ററിലേക്കും സർക്യൂട്ട് ലെവെലിലേക്കും പരിവർത്തനം ചെയ്യാൻ കഴിയും അതായത് ഇത് ട്രാൻസിസ്റ്ററുകൾ മാത്രമല്ല ചിലത് നിങ്ങൾക്ക് രജിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ പോലുള്ള പാരാസൈറ്റിക് എലെമെന്റ്സും ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററുകൾ രജിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ട് ഉണ്ട് അതിനെ സാധാരണയായി ഡിസൈനിലെ സർക്യൂട്ട് ലെവൽ വ്യൂ എന്ന് വിളിക്കുന്നു നിങ്ങൾ മൊഡ്യൂൾ ലെവലിൽ നിന്ന് താഴേക്ക് സർക്യൂട്ട് ലെവലിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾ താഴേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടും ഞങ്ങൾക്ക് കൂടുതൽ വിശദമായ പ്രവർത്തനം ലഭിക്കും ഡിസൈനിന്റെയോ ബിഹേവിയറിന്റെയോ കൂടുതൽ കൃത്യമായ റെപ്രെസെന്റഷൻ അതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി 4 ബിറ്റ് ആഡറിലേക്ക് മടങ്ങാം അതിനാൽ ഈ സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾഎങ്ങനെ സൃഷ്ടിച്ചു എന്നതിന്റെ ഹയരാർക്കിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണിത് 4 ബിറ്റ് ആഡ്ഡർ 4 4 ഫുൾ ആഡറുകൾ ഉപയോഗിച്ച് നമ്മൾ സൃഷ്ടിച്ച 4 ബിറ്റ് ആഡ്ഡർ 4 ഫുൾ ആഡറുകൾ ഓരോ ക്യാരി മൊഡ്യൂളും ഒരു സം മൊഡ്യൂളും ഉപയോഗിച്ച് ഓരോ ഫുൾ ആഡറും നടപ്പിലാക്കാൻ കഴിയും രണ്ടാമത്തെ ഫുൾ ആഡർ ഒരു ക്യാരി മൊഡ്യൂളും ഒരു സം മൊഡ്യൂളും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ക്യാരി മൊഡ്യൂൾ ഇതുപോലുള്ള 3 AND ഗേറ്റുകളും ഇതുപോലുള്ള ഒരു OR ഗേറ്റും ഉപയോഗിച്ചു നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സം A XOR B XOR C ആയി നടപ്പിലാക്കാം അതിനാൽ വെരിലോഗ് പോലുള്ള ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഈ 4 ബിറ്റ് ആഡറിന്റെ സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഇപ്പോൾ നോക്കാം നമുക്ക് ഇത് നോക്കാം 4 ബിറ്റ് ആഡറിന്റെ ടോപ് ലെവൽ ഡിസ്ക്രിപ്ഷൻ ആണിത് അതിനാൽ ഹയസ്റ് ലെവലിൽ നിങ്ങളുടെ ആഡർ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളുടെ ആഡറിൽ സം ക്യാരി ഔട്ട് ക്യാരി ഇൻ X Y എന്നി 2 ഇൻപുട്ടുകൾ നിങ്ങളുടെ സം ഇൻപുട്ടുകൾ X Y എന്നിവയെല്ലാം നിങ്ങൾ സൂചിപ്പിക്കുന്ന 4 ബിറ്റ് സംഖ്യകളാണ് അറേ നൊട്ടേഷൻ 3 കോളൻ 0 എന്നതിന്റെ അർത്ഥം X ഉം Y ഉം 2 അറേകളാണ് അവയുടെ ഇൻഡെക്സ് മൂല്യങ്ങൾ 0 മുതൽ 3 വരെയാകാം അതുപോലെ s യും ഒരു അറേ ആണ് എന്നാൽ ഇൻപുട്ട് ക്യാരി cy in ഉം ഔട്ട്പുട്ട് cy4 ഉം സിംഗിൾ ബിറ്റ് ആണ് ഇന്റർമീഡിയറ്റ് കണക്ഷനുകൾ നിങ്ങൾ ഈ ഫുൾ ആഡർ വീണ്ടും നോക്കിയാൽ 3 ആഡ്ഡറുകൾക്കിടയിൽ 3 ഇന്റർമീഡിയറ്റ് കണക്ഷനുകൾ ഉണ്ടായിരുന്നു അതിനാൽ ഈ ഫുൾ ആഡേഴ്സ് ഇന്റർമീഡിയറ്റ് കണക്ഷനുകൾ നമുക്ക് ചില വയറുകൾ നിർവ്വചിക്കാൻ കഴിയും കൂടാതെ ഫുൾ ആഡ്ഡറിന്റെ 4 കോപ്പികൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നമ്മൾഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുന്നു ഇത് ഒരു ഫുൾ ആഡറാണ് ഔട്ട്പുട്ടുകളായി ക്യാരി ഔട്ട് സം മൊഡ്യൂളുകൾ ഉണ്ട് കൂടാതെ ഇൻപുട്ടുകളായി a b cy in നിങ്ങൾക്ക് ഒരു സം മൊഡ്യൂളും ക്യാരി മൊഡ്യൂളും ഉണ്ട് ഈ സം മൊഡ്യൂളിൽ നമുക്ക് സം ഔട്ട്പുട്ട് ആണ് ഇവയാണ് ഇൻപുട്ടുകൾ ക്യാരി മൊഡ്യൂൾ cy out ഔട്ട്പുട്ട് ആണ് a b cy in ഇൻപുട്ടുകൾ അതിനാൽ നിങ്ങൾ ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾഅത്തരം 4 ആഡ് മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തുകയോ ചെയ്താൽ നിങ്ങൾ അനുയോജ്യമായ വേരിയബിൾ പേരുകൾ നൽകിക്കൊണ്ട് നിങ്ങൾ കാണുന്നു നിങ്ങളുടെ B3 യുടെ ഔട്ട്പുട്ട് cy out2 ആണ് അത് ഈ B2 ന്റെ cy out2ന്റെ ഇന്പുട്ട് ആണ് അതുപോലെ ഇത് ഇവിടെ ബന്ധിപ്പിക്കും ഇത് ഇവിടെ കണക്ട് ചെയ്യും ഉചിതമായ പേരുകൾ നൽകി നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന കണക്ഷനുകൾ അതിനാൽ നിങ്ങൾക്ക് ഇവിടെയും ഈ ഡയഗ്രാമും ഒരിക്കൽ കൂടി കാണാനാകുന്നതുപോലെ ഒരു ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് മറ്റൊന്നിന്റെ ഇൻപുട്ടായി വരുന്നു ഒരു ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് മറ്റൊന്നിന്റെ ഇൻപുട്ടിൽ വരുന്നു അതിനാൽ അതേ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് വേരിയബിൾ ഉചിതമായ പേരുകളിൽ വ്യക്തമാക്കാം അങ്ങനെ ഈ പരസ്പരബന്ധം വ്യക്തമാക്കാൻ കഴിയും ഇത് ഇപ്പോഴും ഒരു പൂർണ്ണമായ വിവരണമല്ലെന്ന് നിങ്ങൾ ഇപ്പോൾ കാണും കാരണം നമ്മൾസം ഉം ക്യാരിയും നിർവചിച്ചിട്ടില്ല ഒരു 4 ബിറ്റ് ആഡ്ഡർ സൃഷ്ടിക്കാൻ നമ്മൾ4 തവണ ആഡ് ചെയ്യണമെന്ന് നമ്മൾ നിർവചിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവ സം ഉം ക്യാരിയും ആണ് സം ഗേറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്യാരി നിർവ്വചിച്ചത് നിങ്ങൾ ഇവിടെ കാണുന്നു നമ്മൾകൂടുതൽ ലോജിക് എക്സ്പ്രെഷൻ ഉപയോഗിച്ചിട്ടില്ല ab OR bc OR ca 3 AND ഗേറ്റുകളും ഒരു OR ഗേറ്റും ഉണ്ടെന്ന് നമ്മൾപറഞ്ഞിട്ടുണ്ട് കൺവെൻഷൻ ആണ് t1 a b എന്നാൽ a b എന്നത് ഇൻപുട്ടുകളാണ് t1 ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തേത് a c ആണ് ഇൻപുട്ടുകൾ t2 ആണ് ഇവിടെ ഔട്ട്പുട്ട് b c ഇൻപുട്ട് t3 ഔട്ട്പുട്ട് അവസാന OR ഗേറ്റ് t1 t2 t3 എന്നിവ ഇൻപുട്ടുകളും cy out ഔട്ട്പുട്ടും ആണ് അതിനാൽ ഇത് ഒരു ശുദ്ധമായ സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ ആണ് കാരണം ഉപയോഗിക്കേണ്ട കൃത്യമായ ഗേറ്റുകളും അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും നമ്മൾവ്യക്തമാക്കുന്നു അതുപോലെ 2 എക്സ്ക്ലൂസീവ് OR ഗേറ്റുകൾ നൽകുന്ന ഈ തുക ആദ്യം ഔട്ട്പുട്ട് t സൃഷ്ടിക്കുന്നു രണ്ടാമത്തേത് ടി യുടെയും സി യുടെയും XOR എടുക്കുന്നു സം സൃഷ്ടിക്കുന്നു അതിനാൽ ഈ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചുതരാം ഗേറ്റ് ലെവൽ വരെ ഒരു ഫുൾ ആഡറിന്റെ സ്ട്രക്ച്ചറൽ ഡിസ്ക്രിപ്ഷൻ ഗേറ്റ് ലെവൽ വരെ 4 ബിറ്റ് ആഡ്ഡർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പൃുവർ ഗേറ്റ് ലെവലിന്റെ ഘടനാപരമായ വിവരണം ലഭിക്കും ഇപ്പോൾ ഏറ്റവും ലോവെസ്റ് ലെവലിൽ നിന്ന് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ റെപ്രെസെന്റഷൻ ലഭിക്കും അതിനാൽ ഇവിടെ ഫിസിക്കൽ സ്പെസിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ചില ദീർഘചതുരങ്ങളുടെ ശേഖരമായി ലേഔട്ട് വ്യക്തമാക്കാൻ ആ ഉദാഹരണത്തിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ദീർഘചതുരങ്ങൾ ആകാം വിവിധ ലയേറുകളിൽ അത് ഒരു മെറ്റൽ ലയർ അല്ലെങ്കിൽ അലൂമിനിയം ആകാം അത് ഡിഫുഷൻ ലയർ പോളിസിലിക്കൺ ലയർ വിവിധ ഫാബ്രിക്കേഷൻ ലയറുകൾ എന്നിവ ആകാം അതിനാൽ ഈ ലെയറിന്റെ കൃത്യമായ ജ്യാമിതിയും അത് ഏത് ലെയറിലാണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതിൽ നിങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഫാബ്രിക്കേഷൻ മാസ്കുകൾ സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ ആ മാസ്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചിപ്പ് നിർമ്മിക്കാൻ ഫാബിലേക്ക് പോകാം അതിനാൽ ഫിസിക്കൽ ലേഔട്ട് എന്നത് റെക്ടാഗിളുകളുടെ അല്ലെങ്കിൽ പോളിഗനുകളുടെ ഒരു ശേഖരമല്ലാതെ മറ്റൊന്നുമല്ല ഇത് പൂർണ്ണമായ വിവരണമല്ല ഇത് പ്രതിനിധാനമാണ് ഫിസിക്കൽ റെപ്രെസെന്റഷനുള്ള വെരിലോഗ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ കാണിച്ച ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പോർട്ട് എന്ന് വിളിക്കപ്പെടുന്ന ചില ലൈനുകൾ വ്യക്തമാക്കാം അത് അലുമിനിയം ലെയറിലുള്ള ഒരു സിഗ്നൽ x0 വഹിക്കുന്നു അതിന്റെ വീതി 1 ആണ് അതിന്റെ ഉത്ഭവം ഈ കോർഡിനേറ്റിലാണ് അതിനാൽ ഈ വിധത്തിൽ നിങ്ങൾക്ക് പോർട്ടുകൾ ബോക്സുകൾ രേഖകൾ എന്നിവയെല്ലാം ഏത് ലെയറിലാണ് പ്രവർത്തിക്കുന്നത് ഏത് കോർഡിനേറ്റിൽ ആരംഭിക്കുന്നു അതിന്റെ വലുപ്പം എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കാൻ കഴിയും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അവസാന ലേഔട്ടും സൃഷ്ടിക്കാൻ കഴിയും ഇത് ചിപ്പ് നിർമ്മിക്കാൻ അന്തിമമായി ഉപയോഗിക്കും അതിനാൽ ഞങ്ങൾക്ക് ഒരു നല്ല ആശയം ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഇതിൽ ഞാൻ അർത്ഥമാക്കുന്നത് ഫൈനൽ ഡയഗ്രം ഡിസൈൻ ഡിജിറ്റൽ ഐസി ഡിസൈൻ ഫ്ലോ നമുക്ക് വീണ്ടും വേഗത്തിൽ നോക്കാം പ്രോസസ്സിംഗ് ഡിസൈൻ എൻട്രി ലോജിക് സിന്തസിസ് പാർട്ടീഷനിംഗ് ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റ് റൂട്ടിംഗ് എന്നിവയുടെ വിവിധ ഘട്ടങ്ങളുണ്ട് അടുത്ത പ്രഭാഷണങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും ഈ മുഴുവൻ ഡിസൈൻ പ്രക്രിയയും വിശാലമായി 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്ന് നിങ്ങൾ കാണുന്നു ആദ്യ ഘട്ടങ്ങളെ ഫ്രണ്ട് എൻഡ് CAD അല്ലെങ്കിൽ ലോജിക്കൽ ഡിസൈൻ എന്ന് വിളിക്കുന്നു അടുത്ത കുറച്ച് ഘട്ടങ്ങളെ ഫിസിക്കൽ ഡിസൈൻ അല്ലെങ്കിൽ ബാക്ക് എൻഡ് CAD എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ കോഴ്സിന്റെ ഭാഗമായി ഫിസിക്കൽ ഡിസൈൻ വശങ്ങളിൽ നമ്മൾകൂടുതൽ ശ്രദ്ധാലുക്കളാണ് അതിനാൽ നമുക്ക് ഇതിനകം തന്നെ ഒരു സർക്യൂട്ട് നെറ്റ് ലിസ്റ്റ് ലഭ്യമാണെന്ന് അനുമാനിക്കും അവിടെ നിന്ന് നമ്മൾ ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റ് റൂട്ടിംഗും മറ്റ് വിശകലന ഘട്ടങ്ങളും തീർച്ചയായും ഓരോ ഘട്ടത്തിലും നിങ്ങൾ സിമുലേഷൻ നടത്തേണ്ടതുണ്ട് ഇതും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും അതിനാൽ നിങ്ങളുടെ ലേഔട്ട് സൃഷ്ടിക്കുന്നതിനുമുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലേഔട്ട് പൂർത്തിയാക്കിയതിനുശേഷം ഞങ്ങൾക്ക് സിമുലേഷൻ നടപ്പിലാക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾക്ക് ഈ സർക്യൂട്ട് എക്സ്ട്രാക്റ്റുചെയ്യാനും കഴിയും കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റ് ലേഔട്ട് സിമുലേഷൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അത് തീർച്ചയായും കൂടുതൽ കൃത്യം ആയിരിക്കും അതിനാൽ ഏകദേശം ഇങ്ങനെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനാൽ ഈ രീതിയിൽ നമ്മൾ ഈ രണ്ടാമത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിലും നമുക്ക് ചർച്ച തുടരാം